പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഇൻ ഓൺലൈൻ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സ് എന്ന കോഴ്സിലേക്ക് തിരികെ സ്വാഗതം ആഴ്ച നമ്പർ 7 ആഴ്ച ഏഴിലെ രണ്ടാമത്തെ ഭാഗം 1 ആഴ്ചയിൽ ഞങ്ങൾ ലഭ്യമാക്കിയ ഉള്ളടക്കം നോക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളിൽ എത്ര പേർ യഥാർത്ഥത്തിൽ സ്വകാര്യതാ നയങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ആളുകൾ സ്വകാര്യതാ നയങ്ങൾ വായിക്കുന്നില്ലെന്ന് ഗവേഷകർ തെളിയിച്ചിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം നിങ്ങളിൽ ചിലർ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഓൺലൈൻ ഇടപാടുകൾ നടത്തിയിരിക്കാം അല്ലെങ്കിൽ മിക്കവാറും നിങ്ങളെല്ലാവരും ഏതെങ്കിലും തരത്തിലുള്ള ഓൺലൈൻ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടാകും നിങ്ങളുടെ ഫേസ്ബുക് ലേക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ട്വിറ്റർ ലേക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് ഓൺലൈനിലോ ബാങ്കുകൾക്കിടയിലോ സാധനങ്ങൾ വാങ്ങുന്ന ഇടപാടുകൾ നടത്തിയിട്ടുണ്ടാകും കഴിഞ്ഞ ആഴ്ചയിലോ ഒരു മാസത്തിലോ നിങ്ങൾ സംവദിച്ച വെബ്സൈറ്റുകളുടെ സ്വകാര്യതാ നയം നിങ്ങളിൽ എത്രപേർ വായിച്ചിട്ടുണ്ട് ഇത് ശരിക്കും കുറവായിരിക്കണം അത് ഞാൻ മാത്രമല്ല പറയുന്നത് ആളുകൾ യഥാർത്ഥത്തിൽ ഇത് സമഗ്രമായി പഠിച്ചിട്ടുണ്ട് അതിനാൽ ഇവിടെ ഒരു ഗവേഷണം പറയുന്നത് നമ്മൾ ആളുകളെ സ്വകാര്യതാ നയങ്ങൾ വായിക്കാൻ പ്രേരിപ്പിക്കുകയാണെങ്കിൽ അതിന് എന്ത് വിലവരും പഠനം നടന്നത് യുഎസിലാണ് ഇത് യഥാർത്ഥത്തിൽ പിഎച്ച്ഡി തീസിസ് ജോലിയുടെ ഭാഗമായിരുന്നു ഓരോ മാസവും ഒരിക്കൽ സന്ദർശിച്ച വെബ്സൈറ്റിന്റെ സ്വകാര്യതാ നയം എല്ലാവരും വായിച്ചാൽ എന്ത് സംഭവിക്കുമെന്നായിരുന്നു ചോദ്യം അതിനു എടുക്കുന്ന സമയം പ്രതിവർഷം ഏകദേശം 244 മണിക്കൂർ ആയിരിക്കും ഇത് അടിസ്ഥാനപരമായി കൂടുതൽ ചെലവ് വരുന്നതാണ് സാമ്പത്തികശാസ്ത്രത്തിൽ ഇത് വളരെ കൂടുതലാണ് ഇത് 244 മണിക്കൂറാണ് നമ്മൾ അത് പണമാക്കി മാറ്റുകയാണെങ്കിൽ മൊത്തം യുഎസ് ജനസംഖ്യ നോക്കിയാൽ സ്വകാര്യതാ നയം വായിക്കുന്നതിനുള്ള ദേശീയ അവസര ചെലവ് 781 ബില്യൺ യുഎസ് ഡോളറാണ് അതായത് യുഎസിലെ ഓരോ പൌരനും അവർ കണ്ട വെബ്സൈറ്റുകളിലെ സ്വകാര്യതാ നയം വായിക്കാൻ കുറഞ്ഞത് ഒരു മാസമെങ്കിലും എടുക്കും അതിന് ഏകദേശം 781 ബില്യൺ ഡോളർ ചിലവാകും അത് ധാരാളം പണമാണ് ഈ സ്വകാര്യതാ നയം വായിക്കാൻ അവർ സമയം ചെലവഴിക്കുന്നതിനാൽ അത് ധാരാളം അവസരങ്ങളാണ് നഷ്ടപ്പെടുത്തുന്നത് അതിനാൽ സ്വകാര്യതാ നയങ്ങൾ വായിക്കുന്ന ആ സന്ദർഭം മനസ്സിൽ വച്ചുകൊണ്ട് ഗവേഷകർ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി ഗവേഷണങ്ങൾ നടക്കുന്ന ഈ മേഖല മുഴുവൻ ഉണ്ട് വിവരമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഉപയോക്താക്കളെ സഹായിക്കുന്നതിനാണ് സാങ്കേതികവിദ്യകൾ നിർമ്മിക്കുന്നത് ഈ സേവനങ്ങളിൽ നിന്ന് യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് അവതരിപ്പിക്കുന്ന വിവരങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് എങ്ങനെ സഹായിക്കാനാകും ഖേദകരമായ ഓൺലൈൻ വെളിപ്പെടുത്തലുകൾ ഒഴിവാക്കാൻ വ്യക്തികളെ സഹായിക്കുക എന്നതാണ് നിർദ്ദിഷ്ട ലക്ഷ്യം നമുക്ക് യഥാർത്ഥത്തിൽ ഇത്തരം സാങ്കേതികവിദ്യ നിർമ്മിക്കാനാകുമോ അതോ ഉപയോക്താക്കൾക്ക് ഉപയോഗിക്കാനായി എന്തെങ്കിലും നിർമ്മിക്കാനാകുമോ അങ്ങനെയാണെങ്കിൽ അവർ പോസ്റ്റുചെയ്യുന്ന ഉള്ളടക്കത്തെക്കുറിച്ച് അവർക്ക് യഥാർത്ഥത്തിൽ സന്തുഷ്ടരാകാം അല്ലെങ്കിൽ ഓൺലൈനിൽ വെളിപ്പെടുത്തുന്ന വിവരങ്ങൾക്ക് ഖേദിക്കേണ്ടിവരില്ല അതിനാൽ എംഐടിയിൽ നിർമ്മിച്ച ഒരു സാങ്കേതികവിദ്യയുണ്ട് ഇപ്പോൾ പോലും നമ്മൾ ഈ ക്ലാസിനായി ഈ ചർച്ചാ ഫോറം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ചർച്ചാ ഫോറത്തിൽ ടൈപ്പ് ചെയ്യുമ്പോൾ കോഴ്സിന്റെ പേര് ചേർക്കുമ്പോൾ നിങ്ങൾ ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോൾ ഈ ഇമെയിൽ ലഭിച്ചിട്ടുള്ള ആളുകൾ ആരൊക്കെ ആണ് എന്ന് നിങ്ങൾക്ക് ശരിക്കും അറിയില്ല ഗ്രൂപ്പുകൾ വ്യത്യസ്തമായി സജ്ജീകരിച്ചിരിക്കുന്നതിനാലാണിത് ആളുകൾ ഗ്രൂപ്പുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ആരുമായാണ് സംവദിക്കുന്നതെന്ന് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുന്നില്ല ഉദാഹരണത്തിന് നിങ്ങളുടെ കമ്പനിയിലെ ഒരു മെയിലിംഗ് ലിസ്റ്റിലോ നിങ്ങളുടെ കോളേജിലെ മെയിലിംഗ് ലിസ്റ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി നിങ്ങൾക്കായി നിലനിർത്തുന്ന മെയിലിംഗ് ലിസ്റ്റിലോ ഈ ഇമെയിലുകൾ ആർക്കാണ് ലഭിക്കുന്നതെന്ന് നിങ്ങൾക്ക് ശരിക്കും കാണാൻ കഴിയില്ല അതിനാൽ എംഐടിയിലെ ഈ ഗവേഷകർ ചെയ്തത് ഇമെയിൽ പോകുമ്പോഴെല്ലാം ഇത് ഒരു പ്രശ്നമാകാം എന്നാണ് അവർ പറയുന്നത് കാരണം ആർക്കാണ് ഇമെയിൽ ലഭിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല അതിനാൽ നിങ്ങൾ പങ്കിടുന്ന വിവരങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഉള്ളടക്കം കാണാൻ നിങ്ങൾ ആഗ്രഹിക്കാത്ത ആളുകളിലേക്ക് പോകുന്നത് ഒരു പ്രശ്നമായി തീരാം അങ്ങനെ അവർ പറഞ്ഞത് പിഎസ്ഓഎസ്എംഎൻപിടിഇഎൽ എബിസി com എന്നൊരു ഇമെയിൽ വിലാസം ഉണ്ടെങ്കിൽ ഈ ഇമെയിൽ ലഭിക്കാൻ പോകുന്ന ആളുകളുടെ പ്രൊഫൈൽ ചിത്രങ്ങൾ അവർ കാണിച്ചുതരും അതിനാൽ എത്ര പേർക്ക് യഥാർത്ഥത്തിൽ ഇമെയിൽ ലഭിക്കുമെന്ന് കാണിക്കുന്നതിനുള്ള ഒരു മാർഗമാണിത് അതാണ് സ്ലൈഡിലെ വിവരങ്ങൾ അതാണ് അവരുടെ പ്രൊഫൈൽ ചിത്രങ്ങൾ കൂടാതെ ഇമെയിൽ സ്വീകരിക്കുന്ന ആളുകൾ ആരാണെന്ന് ഇത് കാണിച്ചുതരും പ്രൊഫൈൽ കാരണം ഈ ഇമെയിൽ കാണാൻ പോകുന്ന ആളുകളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ കഴിയും അതിനാൽ ഈ ഇമെയിൽ അയയ്ക്കുന്നതിൽ തീരുമാനമെടുക്കാൻ ഇത് ഉപയോക്താക്കളെ സഹായിക്കുന്നു കാരണം നിങ്ങൾ ഒരു ഇമെയിൽ അയയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ മെയിലിംഗ് ലിസ്റ്റ് വിലാസം തെറ്റായി ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അത് തെറ്റായ മെയിലിംഗ് ലിസ്റ്റിലേക്ക് പോകും നിങ്ങൾക്ക് ഇത് 10 പേർക്ക് മാത്രം അയയ്ക്കണമായിരുന്നു എന്നാൽ നിങ്ങൾ അയയ്ക്കുന്ന ഇമെയിൽ ലിസ്റ്റ് യഥാർത്ഥത്തിൽ 100 പേർക്ക് പോകുന്നു അതിനാൽ യഥാർത്ഥത്തിൽ ഇത് ഒഴിവാക്കാൻ സഹായിക്കും അവർ നിർമ്മിച്ച അതിന്റെ മറ്റൊരു പതിപ്പിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ മറ്റുള്ളവരേക്കാൾ കൂടുതൽ ഇടപഴകിയ വ്യക്തിയുടെ പ്രൊഫൈൽ ചിത്രം കാണിച്ചുതരുന്നു ആർക്കാണ് ഇമെയിൽ ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു വിധി പറയാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു അല്ലെങ്കിൽ ആരാണ് ഈ ഇമെയിലുകൾ സ്വീകരിക്കുന്നത് മറ്റുള്ളവരെ അപേക്ഷിച്ച് നിങ്ങൾ കൂടുതൽ ഇടപഴകുകയും ചെയ്തു അതിനാൽ നിങ്ങൾക്ക് ഇമെയിൽ അയയ്ക്കണോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കാൻ ഉപയോക്താക്കളെ സഹായിക്കുന്നതിനുള്ള മറ്റൊരു ഉദാഹരണം മാത്രമാണ് ഇത് അതിനാൽ ഇത് മനസ്സിൽ വച്ചുകൊണ്ട് ഉപയോക്താക്കൾക്ക് ഈ തീരുമാനം വിവരമുള്ള തീരുമാനം എടുക്കാൻ സഹായിക്കുന്നു കേവലം ഫെയ്സ്ബുക്കിന്റെ സന്ദർഭം നോക്കാനായി നടത്തിയ ഒരു പ്രവൃത്തി ഇവിടെയുണ്ട് ഈ പരീക്ഷണത്തിൽ അവർ ചെയ്തത് അവർ ക്രോം ബ്രൌസറിന്റെ ഒരു എക്സ്റ്റൻഷൻ നിർമ്മിച്ചു നിങ്ങൾ ഫേസ്ബുക് കോം ലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഒരു പോസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ കാണിച്ചുതരും ഇത് യഥാർത്ഥത്തിൽ ചില വിവരങ്ങൾ നിങ്ങളെ അറിയിക്കും അവർക്ക് വ്യത്യസ്ത സെറ്റ് സബ് നഡ്ജു കളുണ്ട് അവർ എന്താണ് ചെയ്തതെന്ന് ഞാൻ ഇപ്പോൾ ചർച്ച ചെയ്യും അത് എത്രത്തോളം ഫലപ്രദമായിരുന്നുവെന്നും നമ്മൾ കാണും ഏതാണ് ഫലപ്രദമെന്നും അത് ഫലപ്രദമല്ലെന്നും നമ്മൾ നോക്കും നിങ്ങളിൽ ചിലർക്ക് അത് അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ചില പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ചങ്ങാതിമാരുടെ നെറ്റ്വർക്കിലെ അത് കാണരുത് എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അവർ പോസ്റ്റ് കാണുകയും ചെയ്തു മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആഴ്ച 1 അല്ലെങ്കിൽ ആഴ്ച 2 നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ MI6 മേധാവികളെ കുറിച്ചുള്ള ചില ഉദാഹരണങ്ങൾ ഞാൻ കാണിച്ചുതന്നു പൊതുവായി പോകുന്ന ചില ഉള്ളടക്കങ്ങൾ പോസ്റ്റുചെയ്യുമ്പോൾ അത് പൊതുവായി പോകാൻ ഉദ്ദേശിച്ചിരുന്നില്ല അതിനാൽ ഇത്തരം സംഭവങ്ങൾ യഥാർത്ഥത്തിൽ ആളുകളെ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന സാങ്കേതികവിദ്യകൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു അതിനാൽ പിക്ചർ നഡ്ജ് എന്ന ആദ്യ ആശയം ഇതാണ് നിങ്ങൾക്ക് ഒരു പോസ്റ്റ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അത് എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ഒരു പോസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അത് നിങ്ങളെ തടയുകയും പ്രൊഫൈൽ ചിത്രം ഫെയ്സ് മെയിലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഈ താഴെ പറയുന്ന ആളുകൾക്ക് അത് ലഭിക്കുമെന്ന് പറയുകയും ചെയ്യും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ പോസ്റ്റ് കാണാൻ കഴിയും എന്ന് അത് സൂചിപ്പിക്കും അങ്ങനെ ഇത് നിങ്ങളെ തടയുകയും ഈ വിവരങ്ങൾ നിങ്ങളോട് പറയുകയും ചെയ്യും വീണ്ടും താഴെയുള്ള സ്ക്രീൻഷോട്ടിൽ അത് ആളുകളുടെ ലിസ്റ്റ് കാണിക്കുകയും ഇന്റർനെറ്റിൽ ആർക്കും നിങ്ങളുടെ പോസ്റ്റ് കാണുകയും ചെയ്യാം എന്ന സൂചനയും നൽകും അതിനാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ പോസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു ടൈമർ നഡ്ജ് എന്ന രണ്ടാമത്തെ പരീക്ഷണാത്മക സജ്ജീകരണം ആണ് അടുത്ത് ഇവിടെ അത് നിങ്ങൾക്ക് പ്രൊഫൈൽ ചിത്രങ്ങൾ കാണിക്കുന്നില്ല എന്നാൽ നിങ്ങളുടെ പോസ്റ്റ് റദ്ദാക്കാൻ നിങ്ങൾക്ക് പത്ത് സെക്കൻഡ് ഉണ്ടെന്ന് ഇത് കാണിക്കുന്നു അടിസ്ഥാനപരമായി നിങ്ങൾ ഈ പോസ്റ്റ് ചെയ്യുന്നുവെന്ന് പറയാൻ ഈ വിവരങ്ങൾ നിങ്ങളെ അനുവദിക്കുന്നു നിങ്ങൾക്ക് ശരിക്കും ഈ പോസ്റ്റ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ പത്ത് സെക്കൻഡ് കാത്തിരിക്കുക നിങ്ങളുടെ മനസ്സ് മാറ്റണമെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക തുടർന്ന് അപ്ഡേറ്റ് ചെയ്യുക അതാണ് ടൈമർ അപ്ഡേറ്റ് സെന്റിമെന്റ് നഡ്ജ് എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊന്ന് ഇതാണ് ലോകമെമ്പാടും ആളുകൾ ഫേസ്ബുക്കിൽ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തപ്പോൾ അത് അവർക്ക് തിരിച്ചടിയായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് തിരിച്ചടിയായ എന്നാൽ അവർ പോസ്റ്റുചെയ്ത ഉള്ളടക്കം വളരെ പ്രതികൂല ഫലങ്ങളിലേക്ക് നയിച്ചു എന്നാണ് അതിനാൽ അത്തരം കാര്യങ്ങൾ ഇവിടെ ഒഴിവാക്കാവുന്ന ഒരു സജ്ജീകരണം ആണ് ഇത് ഈ സാഹചര്യത്തിൽ ഞാൻ ദേഷ്യത്തിലാണ് എന്ന് അത് കാണിക്കുന്നു അതിനാൽ ഇത് നെഗറ്റീവ് ആണെന്ന് കാണിക്കുന്നു നിങ്ങളുടെ പോസ്റ്റ് നെഗറ്റീവ് ആണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനാൽ നെഗറ്റീവ് വികാരം പോസ്റ്റിനോട് ചേർത്തിരിക്കുന്നു അതിനാൽ ദയവായി ശ്രദ്ധിക്കുക അത്തരം കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ അതുകൊണ്ട് നമുക്ക് ഈ മൂന്നും നോക്കാം ചിത്രങ്ങളുള്ള പിക്ചർ നഡ്ജ് പത്ത് സെക്കൻഡ് സമയം നൽകുന്ന ടൈമർ നഡ്ജ് നിങ്ങൾ ഉണ്ടാക്കുന്ന പോസ്റ്റിന്റെ വികാരം നൽകുന്ന സെന്റിമെന്റ് നഡ്ജ് അതിനാൽ അവർ ക്രോം ബ്രൌസറിൽ നടത്തിയ പഠനത്തിന്റെ രീതി എന്തെന്നാൽ അവർ എക്സിറ്റ് സർവേകൾ നടത്തി ആളുകൾ പഠനം പൂർത്തിയാക്കിയപ്പോൾ അവർ അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും അളവിലുള്ളതും പങ്കെടുക്കുന്നവരുമായുള്ള അഭിമുഖങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു ഐആർബി എന്നത് സ്ഥാപന അവലോകന ബോർഡ് ആണ് അടിസ്ഥാനപരമായി അത് പറയുന്നത് എന്തെന്നാൽ നിങ്ങൾ ഉപയോക്താക്കളിൽ നിന്ന് സംവദിക്കുകയോ വിവരങ്ങൾ ശേഖരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർ യഥാർത്ഥത്തിൽ പഠനം നടത്തുമ്പോൾ കാര്യങ്ങൾ തെറ്റാകില്ലെന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് മറ്റുള്ളവർക്ക് അപമാനവും അതുപോലുള്ള കാര്യങ്ങളും തോന്നരുത് അതുകൊണ്ടാണ് നിങ്ങൾ മനുഷ്യ വിഷയങ്ങളുമായി ഇടപഴകുമ്പോൾ ഐആർബി അംഗീകാരം ആവശ്യമായി വരുന്നത് എല്ലായിടത്തും ഫ്ലയറുകൾ ഇടുന്നതിലൂടെയും ഇമെയിലുകൾ അയയ്ക്കുന്നതിലൂടെയും ക്രെയ്ഗ്ലിസ്റ്റിലൂടെയും ഉപയോക്താക്കളെ പല തരത്തിൽ റിക്രൂട്ട് ചെയ്തു പഠനം പൂർത്തിയാക്കിയ 21 പങ്കാളികളെ അവർക്ക് ലഭിച്ചു ഇത് ക്രോം ബ്രൌസർ പ്ലഗ് ഇൻ ആയതിനാൽ അവർക്ക് ഇത് വീട്ടിലോ എവിടെയെങ്കിലുമോ ഇരുന്നു ഉപയോഗിക്കാൻ കഴിയും 13 പേർ അഭിമുഖത്തിൽ പങ്കെടുത്തു ഇത് എക്സിറ്റ് സർവേയാണ് അതിനാൽ അവർ യഥാർത്ഥത്തിൽ വിശകലനം ചെയ്യാൻ ഉപയോഗിച്ച അളവുകളിൽ ഈ കാര്യങ്ങളുടെ നഡ്ജുകൾ നൽകുന്ന ഈ പശ്ചാത്തലത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇൻലൈൻ സ്വകാര്യത ക്രമീകരണങ്ങളിലെ മാറ്റങ്ങളുടെ എണ്ണം റദ്ദാക്കിയതോ എഡിറ്റുചെയ്തതോ ആയ പോസ്റ്റുകളുടെ എണ്ണം പോസ്റ്റ് ആവൃത്തിയും വിഷയ സംവേദനക്ഷമതയും പ്രധാനമായും ഈ നഡ്ജുകൾ നൽകി അത് മനസിലാക്കി ആളുകളുടെ സ്വാഭാവം മാറ്റാൻ ശ്രമിക്കുക എന്നതാണ് അവർ സ്വഭാവം മാറ്റുകയാണെങ്കിൽ എന്ത് മാറ്റം ഉണ്ടാകും ഇതാണ് അവർ യഥാർത്ഥത്തിൽ പഠിക്കാൻ ശ്രമിക്കുന്ന ആശയം അതാണ് അവർ പഠിക്കാൻ ശ്രമിച്ച അളവുകൾ അതിനാൽ ആദ്യത്തേത് പ്രൊഫൈൽ പിക്ചർ നഡ്ജ് ആണ് ഈ പഠനത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങളോട് പറയാൻ എനിക്ക് ഒരു സ്ലൈഡ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നു ഒരു പങ്കാളി സുഹൃത്തുക്കളിൽ നിന്ന് മാറി മിക്കവാറും എല്ലാവരും പരിചയക്കാർ ഒഴികെയുള്ള സുഹൃത്തുക്കൾ അവൾ പോസ്റ്റ് ചെയ്തപ്പോൾ ഏറ്റവും ഭ്രാന്തമായ ഏറ്റവും ക്ഷീണിപ്പിക്കുന്ന ഒരു ദിവസത്തെ അതിജീവിച്ചു അതിനാൽ അടിസ്ഥാനപരമായി ആളുകൾ നഡ്ജ് യഥാർത്ഥത്തിൽ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് അവർ ഉള്ളടക്കം പങ്കിടുന്ന ഗ്രൂപ്പിനെ മാറ്റുന്നു മറ്റൊരു പങ്കാളി കുറച്ച് പോസ്റ്റുകൾ റദ്ദാക്കി കാരണം പ്രൊഫൈൽ പിക്ചർ നഡ്ജ് അടിസ്ഥാനപരമായി അവർ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് ഇത് അയയ്ക്കുമെന്ന് സൂചിപ്പിച്ചു അതിനാൽ അവർ ആ പോസ്റ്റ് ചെയ്യാതെ ഇരുന്നു ടൈമർ നഡ്ജിൽ ഒരു പങ്കാളി യഥാർത്ഥത്തിൽ പറഞ്ഞു ചിലപ്പോൾ ഇത് ശല്യപ്പെടുത്തുന്നു ചിലപ്പോൾ അത് ഉപയോഗപ്രദമാണ് കാരണം നിങ്ങൾ ഒരു ദിവസം 10 പോസ്റ്റുകൾ അല്ലെങ്കിൽ ഒരു ദിവസം 5 പോസ്റ്റുകൾ പോസ്റ്റുചെയ്യുന്നുവെങ്കിൽ അത് ഓരോ പോസ്റ്റിനും പത്ത് സെക്കൻഡ് നിർത്തും അത് കഴിഞ്ഞു മാത്രമേ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ കഴിയൂ ടൈമർ കാലഹരണപ്പെടുന്നതുവരെ നമ്മൾ കാത്തിരിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുക ബട്ടൺ ക്ലിക്കു ചെയ്യണം അതിനാൽ ഇത് അടിസ്ഥാനപരമായി നൽകാവുന്ന ഒരു സവിശേഷതയാണ് ഇത് കൂടുതൽ പൊതുവായതാക്കുക അത് വെന്റിംഗ് തരം ആയിരിക്കുമ്പോൾ ഇത് കൂടുതൽ ഉണ്ടാക്കുക അതുവഴി കൂടുതൽ നിർദ്ദേശിക്കാനാകും മറ്റൊരു പങ്കാളി പറഞ്ഞു ഇത് അദ്ദേഹത്തെ പോസ്റ്റിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു ഇതുതന്നെയാണ് ഈ നഡ്ജുകൾ യഥാർത്ഥത്തിൽ ഉപയോക്താക്കൾക്കുള്ളിൽ ഉണ്ടാക്കാൻ യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ള പെരുമാറ്റം ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോൾ ഉപയോക്തൃ സ്വഭാവം മാറ്റുന്നത് ഒരു വലിയ ആവശ്യമാണ് ഈ സന്ദർഭത്തിൽ സെന്റിമെന്റ് നഡ്ജ് സൂചിപ്പിച്ചില്ല കാരണം ഏത് സന്ദർഭത്തിലാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് വികാരം കണ്ടെത്തുന്നതിന് യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നു മനുഷ്യരുടെ വികാരങ്ങൾ ലഭിക്കുന്നത് ബുദ്ധിമുട്ടാണ് അതിനാൽ നഡ്ജ് അല്ലെങ്കിൽ ബ്രൌസർ പ്ലഗ് ഇൻ ഉപകരണമായിരുന്നു യഥാർത്ഥത്തിൽ കണക്കുകൂട്ടുന്നതിനിടയിൽ വികാരങ്ങൾ എന്താണെന്ന് കണ്ടെത്തുന്നതിൽ പിശകുകൾ വരുത്തുന്നു നിരവധി പങ്കാളികൾ പോസ്റ്റുകൾ റദ്ദാക്കി കാരണം പോസ്റ്റുകൾ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ നെറ്റ്വർക്കിൽ ഉള്ളവരോ പൊതുജനങ്ങളോ നിങ്ങളുടെ പോസ്റ്റ് കാരണം അസ്വസ്ഥരാകാം വാസ്തവത്തിൽ ഇത് നിങ്ങൾക്ക് ദോഷം ചെയ്യും അതിനാൽ ആളുകൾ യഥാർത്ഥത്തിൽ അവരുടെ പോസ്റ്റ് റദ്ദാക്കി കൂടാതെ പോസ്റ്റ് ആവൃത്തിയും കുറഞ്ഞു മുമ്പ് അവർ യഥാർത്ഥത്തിൽ 13 പോസ്റ്റുകൾ ചെയ്തിരുന്നു ഇപ്പോൾ അത് 7 ആയി കുറഞ്ഞു അതിനാൽ അടിസ്ഥാനപരമായി ഇതെല്ലാം ഉപയോക്താക്കളെ മികച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിന് സഹായിക്കുന്നു പ്രത്യേകിച്ചും മറ്റുള്ളവർ അസ്വസ്ഥരാകുന്ന എന്തെങ്കിലും പോസ്റ്റുചെയ്യുമ്പോൾ ആളുകൾക്ക് തോന്നുന്ന എന്തെങ്കിലും പോസ്റ്റുചെയ്യുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ വിവരങ്ങൾ പങ്കിടാൻ ഉദ്ദേശിക്കാത്ത ആളുകൾക്ക് ലഭിക്കാതിരിക്കാൻ ഇതെല്ലാം യഥാർത്ഥത്തിൽ സഹായകരമാണ് ഉപയോക്താക്കൾക്ക് മികച്ച തീരുമാനമെടുക്കാൻ ഈ സാങ്കേതികവിദ്യകൾ സഹായകരമാണ് തീർച്ചയായും ഏത് പശ്ചാത്തലത്തിൽ ഏത് തരം നഡ്ജുകൾ പ്രവർത്തിക്കുന്നുവെന്ന് മനസിലാക്കാൻ കൂടുതൽ ജോലി ആവശ്യമാണ് കാരണം സന്ദർഭങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും ഞാൻ ഒരു ദ്രുത അപ്ഡേറ്റ് ചെയ്യുന്നു ഉദാഹരണത്തിന് ഞാൻ ഇന്നലെ ഒരുപാട് അപ്ഡേറ്റുകൾ നടത്തുകയായിരുന്നു ഐ ഐ റ്റി കോൺവോ എന്ന ഹാഷ് ടാഗോടെ ഐ ഐ റ്റി ഡൽഹി ൽ നടന്ന സമ്മേളനത്തെക്കുറിച്ച് എനിക്ക് ട്വിറ്ററിൽ മുപ്പതും നാൽപതും പോസ്റ്റുകൾ ചെയ്യേണ്ടി വന്നു പക്ഷേ ഓരോ തവണയും അത് എന്നെ പത്ത് സെക്കൻഡ് തടയുകയാണെങ്കിൽ അത് നല്ലതായിരിക്കില്ല അതിനാൽ സമയത്തിന്റെ കാര്യത്തിൽ അത് കാണിക്കുന്ന വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം കുറച്ചുകൂടി നന്നായി ചെയ്യേണ്ടതുണ്ട് അതിനാൽ കൂടുതൽ ജോലി ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു ഇതിൽ ചിലത് ചർച്ച ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകൾ ക്ലാസ്സിൽ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇത് പ്രവർത്തിക്കാൻ രസകരമായ പ്രോജക്ടുകളായിരിക്കാം അതോടെ ഞാൻ ആഴ്ചയിലെ 7 2 ഭാഗം നിർത്തുന്നു ഈ ആഴ്ചയിലെ അടുത്ത ഭാഗത്തിലും ഞാൻ സോഷ്യൽ മീഡിയയുടെ പശ്ചാത്തലത്തിൽ ഉള്ള ഫിഷിംഗ് ഇനെ കുറിച്ച് തുടരും